സെൽ കൾച്ചർ ലെക്ചർ സീരിസിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റം കോശങ്ങൾ വേർതിരിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സാറ്റലൈറ്റ് സെല്ലുകളെ കുറിച്ച് പറഞ്ഞാണ് നിർത്തിയത് ഈ രീതിയിൽ മുതിർന്ന ഹൃദയപേശികളിൽ നിന്നും സ്റ്റം കോശങ്ങളെ വേർതിരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റം കോശങ്ങൾ നട്ടെല്ലിലും ഉണ്ട് ഈ കോശങ്ങൾ വേർതിരിച്ചെടുക്കാനും അവയിൽ നിന്ന് പുതിയ നാഡീ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ഉള്ള ഒട്ടേറെ ശ്രമങ്ങൾ ലോകത്താകമാനം നടന്നുവരികയാണ് ഇത്തരം പുതിയ രീതികളെ വികസിപ്പിച്ചെടുക്കാൻ ഏറ്റവും പ്രധാനമായുള്ളത് അടിസ്ഥാന ആശയങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അറിവാണ് വിവിധ തരത്തിലുള്ള കോശങ്ങളെ എങ്ങനെ വേർതിരിക്കാനാവും നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ അവയെ എങ്ങനെ വളർത്തിയെടുക്കാൻ ആവും നിങ്ങളുടെ ലാബിൽ ചെയ്യുന്ന രീതി ലോകത്തിൻറെ മറ്റൊരിടത്ത് അതേരീതിയിൽ ആവർത്തിക്കാൻ ആകുമോ തുടങ്ങി സെൽ കൾച്ചറിന്റെ അടിസ്ഥാന ആശയങ്ങളെ കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിരിക്കണം അസ്ഥി പേശികളുടെ വളർച്ച വളരെ രസകരമാണ് ആദ്യം അസ്ഥി പേശി കോശങ്ങൾ രൂപപ്പെട്ടുവരുന്നതിൻറെ ജീവശാസ്ത്രത്തെക്കുറിച്ച് ആദ്യം പറയാം അതിനുശേഷം കൾച്ചർ ഡിഷിൽ ഇൻവിട്രോ സാഹചര്യത്തിൽ ഈ കോശങ്ങളെ വളർത്തിയെടുക്കുന്നതിലെ വെല്ലുവിളിയെ കുറിച്ച് സംസാരിക്കാം നേരിട്ട് ടിഷ്യു എടുക്കാതെ സാറ്റലൈറ്റ് കോശങ്ങൾ ഉപയോഗിച്ച് അസ്ഥി പേശി വളർത്തിയെടുക്കാൻ പറഞ്ഞതിന്റെ കാരണത്തെക്കുറിച്ച് പറഞ്ഞ് ആരംഭിക്കാം അപ്പോൾ ഇത് ഏഴാമത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ലെക്ചർ ആണ് അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ അസ്ഥി പേശി കോശങ്ങൾ രൂപപ്പെടുന്നത് ഏകദേശം ഇത്തരത്തിലാണ് അസ്ഥിപേശി കോശങ്ങളായി മാറാൻ മുൻവിധിയുള്ള ചില കോശ സമൂഹങ്ങൾ ഉണ്ട് അതാണ് ഞാനിവിടെ വരയ്ക്കുന്നത് ഈ കോശങ്ങൾ അസ്ഥിപേശി കോശങ്ങളായി മാറാൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഈ കോശങ്ങൾ വിവിധ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു അത് പിൻകാലുകളോ മറ്റേതെങ്കിലും അസ്ഥി പേശി കോശങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങളോ ആകാം അപ്പോൾ ഈ കോശങ്ങൾ എന്താണ് ചെയ്യുക ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവ സ്വയം വിന്യസിക്കുകയും വിഭജിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആ കോശങ്ങൾ ഇത്തരത്തിൽ വിഭജിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വിഭജനം നടന്നു കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ വിന്യസിച്ചു കഴിഞ്ഞാൽ ഈ കോശങ്ങൾ വിഭജിച്ച് ഒരു പ്രത്യേക അസ്ഥി പേശി ആയി മാറുന്നു ഇതാണ് ആദ്യത്തെ പടി അടുത്തതായി ഈ കോശങ്ങൾക്ക് സാവധാനം അവയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയും സാധാരണ പറയാറുള്ള സിൻസിഷ്യം ആയി മാറുകയും ചെയ്യുന്നു അവരുടേത് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഘടന ആയി മാറുന്നു എന്നിരുന്നാലും ന്യൂക്ലിയസ് അതിൻറെ വ്യക്തിത്വം നിലനിർത്തും ഒടുവിൽ ഈ കോശങ്ങൾ വളരെ രസകരമായ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉള്ള ഒരു കുഴൽ രൂപത്തിലേക്ക് അഥവാ മൾട്ടിന്യൂക്രിയേറ്റ് ട്യൂബ്സ് രൂപത്തിൽ ആയി മാറുന്നത് കാണാം ഈ കുഴലുകളെ മയോ ട്യൂബ്സ് എന്ന് വിളിക്കുന്നു മയോ എന്നതിനർത്ഥം പേശി മയോ ട്യൂബ്സ് എന്നാൽ ഈ കുഴൽ രൂപത്തിലുള്ള പേശികൾ മാംസപേശി യിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളാണ് ഈ കോശങ്ങൾ ഈ കുഴലുകൾ പരസ്പരം വിന്യസിച്ച് മയോ ഫൈബേർസ് ആയി മാറുന്നു ഇങ്ങനെ രൂപപ്പെട്ട മയോ ഫൈബേർസ് വീണ്ടും പരസ്പരം വിന്യസിച്ച് സങ്കീർണമായ മാംസപേശി ആയി തീരുന്നു നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട ശേഷം ശരീരത്തിൽ നടക്കുന്ന വളരെ സങ്കീർണ്ണമായ ഒരു പ്രക്രിയയാണിത് അപ്പോൾ ആദ്യത്തെ പടി അതിനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന കോശങ്ങൾ അവിടെ എത്തിച്ചേരുക എന്നതാണ് അതിനുശേഷം വലിയതോതിൽ കോശവിഭജനം നടക്കുന്നു വിഭജന ശേഷം കോശങ്ങൾക്ക് അവയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു അത് കുഴൽ പോലെയുള്ള ഈ ഘടനയിൽ എത്തിച്ചേരുന്നു ആ കോശങ്ങളെ ആണ് നമ്മൾ മൾട്ടിന്യൂക്രിയേറ്റ് ട്യൂബ്സ് അഥവാ മയോ ട്യൂബ്സ് എന്നു വിളിക്കുന്നത് എൻറെ അറിവ് വെച്ച് മയോ ട്യൂബ്സ് ൽ നിന്ന് ഒറ്റ കോശങ്ങൾ വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ല കാരണം അത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള തുടർച്ചയായ ഒരു കുഴലാണ് അതിനാൽ അവയിൽ നിന്ന് ഒറ്റ കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ വഴിയൊന്നുമില്ല എന്നുവെച്ചാൽ മയോ ട്യൂബ്സ് ൽ നിന്ന് ഒറ്റ കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ ആവില്ല എന്നാൽ ഒറ്റ കോശങ്ങൾ ഉപയോഗിച്ച് മയോ ട്യൂബ്സ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അസ്ഥിപേശി സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് കോശങ്ങൾ വേണം എന്ന് പറയാൻ കാരണം പിൻകാലുകളിൽ ഇത്തരത്തിൽ മനോഹരമായ ഫൈബേർസ് കാണാനായി സാധിക്കും അവ ഇതുപോലുള്ള മൾട്ടിന്യൂക്രിയേറ്റ് ഫൈബേർസ് ആണ് സ്റ്റൈൻ ഉപയോഗിച്ച് ഇവയുടെ രൂപം മനസ്സിലാക്കാനാവും എന്നാൽ ഒറ്റ കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകില്ല ഏക വഴി ഇവിടെ ചുവടെ കാണപ്പെടുന്ന ഈ വലിയ സാറ്റലൈറ്റ് കോശങ്ങളാണ് അസ്ഥിപേശികളെ ക്ഷതങ്ങളിൽ നിന്നും ശരിയാക്കി എടുക്കുന്നതിലും ഈ കോശങ്ങൾ പങ്കു വഹിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഈ കോശങ്ങൾ അസ്ഥിപേശികളെ ശരിയാക്കി എടുക്കുക മുന്നേ പറഞ്ഞ അതേ മാതൃക തന്നെയായിരിക്കും ഇവിടെ പിന്തുടരുക അപ്പോൾ നിങ്ങളുടെ കൈയ്യിൽ അസ്ഥിപേശി സാറ്റലൈറ്റ് കോശങ്ങൾ ഉണ്ട് അങ്ങിനെ ഈ സാറ്റലൈറ്റ് കോശങ്ങൾ വിഭജിക്കുന്നു അവയുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് കുഴൽ രൂപത്തിൽ ആകുന്നു സാവധാനം ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള അനേകം മൾട്ടി ന്യൂക്രിയേറ്റ് ട്യൂബ്സ് ആയി മാറുന്നു അപ്പോൾ ഇതാണ് ഈ കോശങ്ങളുടെ അടിസ്ഥാന രൂപപ്പെടൽ മാതൃക ഇവിടെ രണ്ടു പ്രക്രിയകൾ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവയുടെ വിഭജനവും രണ്ടാമത്തേത് കുഴൽ രൂപം കൈവരിക്കുന്നതും ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരു കൾച്ചർ ഡിഷിൽ അസ്ഥി പേശികളെ വളർത്തിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് F 18 ഫീറ്റസ് ആണ് ഈ ഘട്ടത്തിൽ ഫീറ്റന്സിന്റെ പിൻകാലുകളിൽ പേശികൾ ആവാൻ മുൻവിധിയുള്ള ഒരുപാട് കോശങ്ങൾ ഉണ്ടായിരിക്കും ഇത്തരം ഒരുപാടു കോശങ്ങൾ പരസ്പരം വിന്യസിച്ചും വിഭജിച്ചുമാണ് പേശി ആയി മാറുന്നത് മുൻകാലുകളിൽ നിന്നും ഈ കോശങ്ങളെ എടുക്കാനാവും എപ്പോഴും പിൻകാലുകളിൽ നിന്ന് തന്നെ കോശങ്ങൾ സ്വീകരിക്കണമെന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്ന പേപ്പറിൽ അത് സൂചിപ്പിക്കണം അപ്പോൾ നമ്മൾ ഉദാഹരണമായി പറഞ്ഞ F 18 ഫീറ്റസ് നോക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ഈ ഭാഗം പതുക്കെ തുറന്ന് വളരെ നല്ല ഒരു മൈക്രോ ഫോർസെപ്സ് ഉപയോഗിച്ച് ഒരു കഷ്ണം ടിഷ്യു പുറത്തേക്ക് വലിച്ചെടുക്കണം ഇനി നിങ്ങൾ എന്തു ചെയ്യും ഈ ടിഷ്യുവിൽ നിന്ന് ഏക കോശങ്ങൾ അടങ്ങുന്ന സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കിയെടുക്കണം സിംഗിൾ സെൽ സസ്പെൻഷൻ ഏതാണ്ട് ഇതുപോലിരിക്കും ഒറ്റ കോശങ്ങളായി വേർതിരിക്കാൻ സാധാരണ ട്രിപ്സിൻ ആണ് ഉപയോഗിക്കാറ് ട്രിപ്സിനും ഒപ്പം യാന്ത്രിക രീതികളും പപ്പൈൻ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ട്രിപ്സിൻ ആണ് കൂടുതൽ അഭികാമ്യം കാരണം ഒറ്റ കോശങ്ങളായി വേർപെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഈ ടിഷ്യുവിൽ ഉണ്ടാകും അതിനാൽ ട്രിപ്സിൻ ടിഷ്യുകളിൽ 15 മുതൽ 30 മിനിറ്റ് വരെ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഈ പ്രവർത്തനം നിർത്തലാക്കാൻ ആൻറി ട്രിപ്സിൻ ഉപയോഗിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അവ കോശങ്ങളെ ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ കേടുവരുത്താം അതിനാൽ ട്രിപ്സിൻറെ പ്രവർത്തനം നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോശങ്ങളെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ച് സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഈ പ്രക്രിയയിൽ രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളതെന്ന് ആദ്യത്തേത് വിഭജനം അടുത്തഘട്ടം ഡിഫറെൻസിയേഷൻ ഇപ്പോൾ ഞാൻ പുതിയ രണ്ട് പദങ്ങളാണ് പരിചയപ്പെടുത്തിയത് മുന്നേ തന്നെ വിഭജനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ വിഭജന സമയത്ത് ഒറ്റ കോശങ്ങൾ വിഭജിക്കുന്നു അതിനുശേഷമാണ് ഡിഫറെൻസിയേഷൻ ഡിഫറെൻസിയേഷൻ ഘട്ടത്തിലാണ് ഈ കോശങ്ങൾ കുഴൽ രൂപത്തിൽ ആകുന്നത് ഏറ്റവും രസകരമായ വസ്തുത ഇതാണ് വിഭജനത്തിനുള്ള സിഗ്നൽ വരികയാണെങ്കിൽ കുഴൽ രൂപത്തിലുള്ള പേശികൾ രൂപപ്പെടുകയില്ല വിഭജനത്തിനുള്ള സിഗ്നൽ കോശങ്ങൾ കുഴൽ രൂപത്തിലേക്ക് മാറുന്നതിന് പൂർണമായി തടസ്സപ്പെടുത്തും അതിനർത്ഥം കോശങ്ങളുടെ ഡിഫറെൻസിയേഷൻ നടക്കാൻ ആവശ്യമായ മോളിക്കുലാർ സിഗ്നൽസ് കോശങ്ങളുടെ വിഭജനം സാധ്യമാക്കുന്ന മോളിക്കുലാർ സിഗ്നൽസിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അത് സെൽ കൾച്ചറിൽ സങ്കീർണമായ ഒരു ചോദ്യം ഉയർത്തുന്നു അതിനർത്ഥം നിങ്ങൾ സെൽ കൾച്ചർ നടത്തുന്ന ചുറ്റുപാടിനെ രണ്ട് വ്യത്യസ്തമായ ഘട്ടങ്ങളായി തരം തിരിക്കേണ്ടിവരും വിഭജനഘട്ടം ഡിഫറെൻസിയേഷൻ ഘട്ടം സ്റ്റം സെൽസ് വളർത്തിയെടുക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് 2003 അല്ലെങ്കിൽ 2004 കാലഘട്ടത്തിൽ സെൽ കൾച്ചർ ചെയ്തിരുന്നവർ ഉപയോഗിച്ച രീതി ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അസ്ഥിപേശി കോശങ്ങളെ സെറത്തിൽ വളർത്തിയെടുക്കും പൂർണമായി നിർവചിക്കപ്പെടാത്ത ഈ അവസ്ഥയിൽ കോശങ്ങൾ വിഭജിക്കുന്നു ഇവിടെ നമുക്കൊന്നും നിയന്ത്രിക്കാനാവില്ല നാലഞ്ചു ദിവസത്തെ വിഭജനത്തിനുശേഷം ഈ കോശങ്ങളെ സെറത്തിൽ നിന്ന് മാറ്റുന്നു കോശങ്ങളെ സെറത്തിൻറെ അഭാവത്തിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇവിടെ രണ്ടു ഘട്ടങ്ങളാണ് ഉള്ളത് സെറം ഉള്ള ഘട്ടം സെറം ഇല്ലാത്ത ഘട്ടം ഇത്തരത്തിലാണ് മുമ്പ് ഉപയോഗിച്ചിരുന്ന രീതി എന്നാൽ ഇത് ശരിയായ വിധം നിർവചിക്കാനാവാത്ത രീതികളാണ് എന്നാൽ പിന്നീടു നടന്ന പഠനങ്ങളുടെ ഫലമായി തീർത്തും നിർവചിക്കപ്പെട്ട പുതിയ രീതികൾ ഉടലെടുത്തു വിഭജനത്തിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അറിയപ്പെടുന്ന ഫാക്ടർസ് ഉപയോഗപ്പെടുത്തിയാണ് ഈ രീതികൾ രൂപപ്പെടുത്തിയത് വിഭജനത്തെ സഹായിക്കുന്നതായി അറിയപ്പെടുന്ന ഫാക്ടർസ് ഡിവൈഡിങ് ഫാക്ടർസ് ആദ്യത്തെ 4 5 ദിവസം നൽകുന്നു പിന്നീട് ഈ ഘടകങ്ങളെ പൂർണ്ണമായും മീഡിയത്തിൽ നിന്ന് നീക്കംചെയ്യുന്നു ഒപ്പം ഡിഫറെൻസിയേഷൻ സാധ്യമാക്കുന്ന ഡിഫറെൻസിയേഷൻ ഫാക്ടർസ് മീഡിയത്തിലേക്ക് ചേർക്കുന്നു ഇത് മറ്റൊരു തരത്തിലും ചെയ്യാവുന്നതാണ് നാലു ദിവസം വിഭജനത്തിനും ഡിഫറെൻസിയേഷനും ആവശ്യമായ ഫാക്ടർസ് മീഡിയത്തിൽ ചേർക്കാവുന്നതാണ് അതായത് 0 മുതൽ 5 ദിവസം വരെ അല്ലെങ്കിൽ 4 5 ദിവസം വരെ രണ്ടു സിഗ്നലുകളും ഒരുമിച്ച് നൽകുക ശേഷം ഡിഫറെൻസിയേഷൻ ഫാക്ടർസ് മാത്രം നൽകുക ഈ x y z ഫാക്ടർസ് എല്ലാം ഡിഫറെൻസിയേഷനിൽ സഹായിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഡിവൈഡിങ് ഫാക്ടറിന് ഒരു ഉദാഹരണമാണ് ബേസിക് ഫൈബ്രോബ്ലാസ്റ് ഗ്രോത്ത് ഫാക്ടർ എന്ന് സാധാരണ അറിയപ്പെടുന്ന ബേസിക് FGF ഞാൻ ബേസിക് എന്ന് പറയാൻ കാരണം അസിഡിക് FGF ഉം ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങളുടെ അറിവിലേക്കായി പറയാം അസിഡിക് FGF മുതിർന്ന സുഷുമ്നാ മോട്ടോർ ന്യൂറോണുകളെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വിഭജന സിഗ്നൽ ആയി പ്രവർത്തിക്കുന്ന ബേസിക് ഫൈബ്രോബ്ലാസ്റ് ഗ്രോത്ത് ഫാക്ടറിനെ കുറിച്ചാണ് ബേസിക് ഫൈബ്രോബ്ലാസ്റ് ഗ്രോത്ത് ഫാക്ടറിന്റെ സാന്നിധ്യത്തിൽ കോശങ്ങൾ വിഭജിക്കുന്നു ആദ്യത്തെ 3 4 ദിവസത്തിനുള്ളിൽ മതിയായ വിഭജനം നടക്കുന്നു ഇനി നിങ്ങൾ മീഡിയത്തിൽ നിന്ന് ബേസിക് FGF നെ നീക്കം ചെയ്യണം ബേസിക് FGF നീക്കം ചെയ്താൽ പിന്നെ മീഡിയത്തിൽ ബാക്കിയുള്ളത് ഡിഫറെൻസിയേഷൻ സിഗ്നൽസ് മാത്രമാണ് അവ കോശങ്ങളെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നയിക്കുന്നു ഇത്തരത്തിൽ എല്ലാ പാരാമീറ്ററുകളും എല്ലാ ഘട്ടങ്ങളും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള സെൽ കൾച്ചർ മോഡലുകളെ ആണ് ഡിഫൈൻഡ് സിസ്റ്റങ്ങൾ എന്നു വിളിക്കുന്നത് ഡിഫൈൻഡ് സിസ്റ്റം വികസിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ഡിഷിൽ വളർത്തിയെടുത്ത വിഭജനവും ഡിഫറെൻസിയേഷനും എല്ലാം കഴിഞ്ഞ് രൂപപ്പെട്ട ഈ അസ്ഥി പേശികൾ സങ്കോചിക്കുന്നുണ്ടോ അവ സങ്കോചിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു എന്നർത്ഥം ഈ ഘട്ടത്തിൽ എന്തു സംഭവിച്ചു എന്നതിലേക്ക് തിരിച്ചുവരാം ഈ കുഴൽ പോലെയുള്ള കോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അവയുടെ സെൽ മെമ്പറൈനിൽ ധാരാളം ഫിലമെന്റസ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും മിക്കവാറും പേശികോശങ്ങളിൽ കാണപ്പെടുന്ന ഫിലമെന്റസ് പ്രോട്ടീൻ ആക്ടിൻ മയോസിൻ തുടങ്ങിയവയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഘടനകൾ രൂപപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ ആക്ടിൻ മയോസിൻ ഫിലമെന്റുകൾ സ്വയം ഇത്തരത്തിൽ വിന്യസിക്കപ്പെടും അനിമൽ ഫിസിയോളജി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പ്രതിപാദിക്കുന്ന സ്ലൈഡിങ് ഫിലമെന്റ് തിയറി ഉണ്ട് അതനുസരിച്ച് പേശികളുടെ സങ്കോചം സ്ലൈഡിങ് ഫിലമെന്റ് മൂലമാണ് നടക്കുന്നത് സ്ലൈഡിങ് ഫിലമെന്റ്കളുടെ പ്രവർത്തനം കാൽസ്യം സ്പൈക്കിംഗ് അഥവാ കാൽസ്യത്തിൻറെ അതിപ്രസരം മൂലവുമാണ് സംഭവിക്കുന്നത് കാൽസ്യത്തിൻറെ അതിപ്രസരം സ്ലൈഡിങ് ഫിലമെന്റ്കളുടെ പ്രവർത്തനത്തിന് കാരണമാവുകയും തന്മൂലം പേശികൾ സങ്കോചിക്കുകയും ചെയ്യുന്നു അതാണ് മുഴുവനായുള്ള പ്രവർത്തനം അപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ അല്പം കൂടി ആഴത്തിൽ ഇതിനെക്കുറിച്ച് അറിയാം ഇത്തരത്തിൽ ഫീനോടൈപ്പും പ്രവർത്തനവും ഒരുപോലെ കോശങ്ങൾ നിലനിർത്തുന്നുണ്ടോ എന്ന് കണക്കാക്കുക